അതിനാൽ ഗ്രിഡ് റൂട്ടിംഗ് അൽഗോരിതങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ചകൾ തുടരുന്നു ഈ പ്രഭാഷണത്തിൽ കൂടുതൽ അൽഗോരിതങ്ങൾ ഞങ്ങൾ ചർച്ചചെയ്യും അവ പ്രവർത്തന സമയത്തിന്റെയും സംഭരണ സങ്കീർണ്ണതകളുടെയും കാര്യത്തിൽ കൂടുതൽ കാര്യക്ഷമമാണ് ആദ്യത്തേതിനെ ഹാഡ്ലോക്കിന്റെ അൽഗോരിതംHadlock's algorithm എന്ന് വിളിക്കുന്നു ഈ രീതി ആദ്യം പറയാം ഇത് ലീയുടെ അൽഗോരിതംLee's algorithm പോലെയാണ് ഇവിടെയും നമ്മൾ ചില സെല്ലുകളെ അക്കങ്ങൾ ഉപയോഗിച്ച് ലേബൽ ചെയ്യുന്നു എന്നാൽ ഞങ്ങൾ ലേബൽ ചെയ്യുന്ന രീതി തരംഗ മുന്നണികൾ പുരോഗമിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് കാരണം ലീയുടെ അൽഗോരിതംLee's algorithm നിങ്ങൾ അടിസ്ഥാനപരമായി ഓർമ്മിക്കാൻ ശ്രമിക്കുക ടാർഗെറ്റ് യഥാർത്ഥത്തിൽ ഏത് ദിശയിലാണ് സ്ഥിതിചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു പരിഗണനയുമില്ലാതെ നിങ്ങൾ എല്ലാ ദിശകളിലും നമ്പറിംഗ് അല്ലെങ്കിൽ വേവ് ഫ്രണ്ട് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു അതിനാൽ ടാർഗെറ്റ് അവിടെയായിരുന്നുവെങ്കിൽ ലീയുടെ അൽഗോരിതത്തിൽLee's algorithm നിങ്ങൾ വേവ് ഫ്രണ്ട് മറ്റൊരു ദിശയിലേക്ക് പ്രചരിപ്പിക്കുന്നു പക്ഷേ ഹാഡ്ലോക്കിന്റെ അൽഗോരിതത്തിൽHadlock's algorithm നിങ്ങൾ ശരിയായ ദിശയിലേക്കോ വിപരീതദിശയിലേക്കോ നീങ്ങുകയാണെന്ന വസ്തുത ട്രാക്ക് ചെയ്യുക നിങ്ങൾ ശരിയായ ദിശയിലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മുൻഗണന നൽകുന്നു അതിനാൽ വേവ് ഫ്രണ്ടുകളുടെ വിപരീത ദിശയിലുള്ള അനാവശ്യമായ വിപുലീകരണം നിങ്ങൾ ഒഴിവാക്കുന്നു ഇത് വളരെ കുറച്ച് സെല്ലുകൾ എണ്ണേണ്ടിവരും അത് തീർച്ചയായും കൂടുതൽ വേഗത്തിലും സമയത്തിലും ചെയ്യാം ഹാഡ്ലോക്കിന്റെ അൽഗോരിതത്തിൽ Hadlock's algorithm ഉപയോഗിച്ചിരിക്കുന്ന ഈ സെൽ ലേബലിംഗ് സ്കീം ഞാൻ ഉദ്ദേശിക്കുന്നത് ഡിടൂർ നമ്പറുകൾ എന്ന് വിളിക്കപ്പെടുന്നു ഇപ്പോൾ ഒരു ഡിടൂർ എന്താണ് ഒരു ഡയഗ്രാമിന്റെ സഹായത്തോടെ ഡിടൂർ എന്ന ആശയം ഞാൻ വിശദീകരിക്കട്ടെ എനിക്ക് ഇവിടെ ഒരു ഉറവിടമുണ്ട് എനിക്ക് ഇവിടെ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട് അതിനാൽ എസ് മുതൽ ഡി വരെയുള്ള ഒരു പാത കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ചില കാരണങ്ങളാൽ എനിക്ക് ഇതുപോലൊരു വഴി കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് കരുതുക ഒരു വഴി കണ്ടെത്തുന്നതിന് ഞാൻ ഡിയിൽ നിന്ന് പോകേണ്ടിവന്നേക്കാം വീണ്ടും ഞാൻ ഇതുപോലൊരു പാതയിലേക്ക് ഡിയിലേക്ക് മടങ്ങേണ്ടിവരാം ഇപ്പോൾ ഞാൻ ഡിയിൽ നിന്ന് അകന്നുപോകുന്ന ഈ നീക്കത്തെ ഒരു ഡിടൂർ എന്ന് വിളിക്കുന്നു ഇവിടെ ഞാൻ ഡിയിൽ നിന്ന് അകന്നുപോകുന്നു എന്നാൽ ഈ സെഗ്മെന്റ് അല്ലാതെ നിങ്ങൾ മറ്റെവിടെയും കാണുന്നില്ല ഈ വഴിയിൽ ഞങ്ങൾ ഒരു ഡിടൂർ ഉപയോഗിക്കുന്നു ഇവിടെ ഞങ്ങൾ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നത് ഇവിടെയും ഞങ്ങൾ ശരിയായ ദിശയിലേക്കാണ് നീങ്ങുന്നത് എന്നാൽ ഇവിടെ ഞങ്ങൾ ഒരു ഡിടൂർ ചെയ്യുകയാണ് ഇപ്പോൾ ഡി യുമായി ബന്ധപ്പെട്ട് നമ്മൾ അകന്നുപോകുന്ന സെല്ലുകളുടെ എണ്ണം ഡിടൂർ നമ്പർ എന്ന് വിളിക്കുന്നു ഇതാണ് ആശയം അതിനാൽ ഡിടൂർ നമ്പർ നോക്കാം 2 സെല്ലുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാതയുടെ പി ഡിടൂർ നമ്പർ ലക്ഷ്യത്തിൽ നിന്ന് അകലെയുള്ള ഗ്രിഡ് സെല്ലുകളുടെ എണ്ണമായി നിർവചിക്കപ്പെടുന്നു നിങ്ങളുടെ നമ്പർ d എന്നത് ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ എത്ര ഗ്രിഡ് സെല്ലുകളിൽ നിന്ന് അകന്നുപോകുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തുന്ന മുഴുവൻ പാതയും ആണ് ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഈ ഉദാഹരണത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു അതിനാൽ നിങ്ങൾ ഈ പാതയിലൂടെ അകന്നുപോകുന്നു അതിനാൽ നിങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ചലനത്തിന്റെ അളവ് നിങ്ങൾ വീണ്ടും അതേ അളവിൽ തിരികെ വരേണ്ടിവരും അതിനാൽ നിങ്ങൾ അകന്നുപോവുകയായിരുന്നു നിങ്ങൾ വീണ്ടും തിരികെ വരേണ്ടിവരും അതിനാൽ നിങ്ങൾ അകന്നുപോകുന്ന d യുടെ ഈ തുക നിങ്ങൾ തിരികെ വരുമ്പോൾ d കൂടി ചേർക്കേണ്ടതുണ്ട് അതിനാൽ ഡിടൂർ നമ്പറിനെ അപേക്ഷിച്ചുള്ള ഈ പാതയുടെ നീളം S ഉം T ഉം തമ്മിലുള്ള മൻഹട്ടൺ ദൂരം വച്ചിട്ട് കണക്കാക്കാം അത് അവിടെ ഉണ്ടാകാനിടയില്ലാത്ത പ്രതീക്ഷിക്കുന്ന ഏറ്റവും ചെറിയ പാതയാണ് അത് ഡിടൂർ നമ്പറിന്റെ ഇരട്ടിയും കൂട്ടിയാൽ കിട്ടും അതിനാൽ നിങ്ങൾ ദൂരെയുള്ള ദിശയിലേക്ക് പോയാൽ വീണ്ടും അത്രയും തിരികെ വരേണ്ടിവരും അതിനാൽ നിങ്ങൾ പാതയുടെ ദൈർഘ്യം കണക്കാക്കുന്നത് ഇങ്ങനെയാണ് ഹാഡ്ലോക്കിന്റെ അൽഗോരിതത്തിന്Hadlock's algorithm പിന്നിലെ ആശയം സെല്ലുകൾ ലേബൽ ചെയ്യുന്നതിന് ഡിടൂർനമ്പറുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് അതിനാൽ സെൽ പൂരിപ്പിക്കൽ ലീയുടെ അൽഗോരിതം Lee's algorithm പോലെയാണ് വ്യത്യാസം നിങ്ങൾ കളം നിറയ്ക്കുന്നത് ഡിടൂർ നമ്പർ ഉപയോഗിച്ചാണ് അല്ലാതെ അതിന്റെ ദൂരമല്ല ഈ സെല്ലുകൾ ചെറിയ ഡിടൂർ നമ്പർ ഉള്ളതും ഉയർന്ന മുൻഗണനയോടെ വികസിപ്പിച്ചതും ആണ് ഇത് ഇവിടെ മറ്റൊരു പോയിന്റ് ഓരോ ഘട്ടത്തിലും ലീയുടെ അൽഗോരിതംLee's algorithm കാണാൻ ഞങ്ങൾ ഒരു അയൽക്കാരനെ അടുത്ത ഘട്ടത്തിൽ അയൽക്കാരന്റെ അയൽക്കാരനെ ലേബൽ ചെയ്യുന്നു എന്നാൽ ഹാഡ്ലോക്കിന്റെ അൽഗോരിതത്തിൽHadlock's algorithm നിങ്ങൾ ഒരേ ഘട്ടത്തിൽ ഒരേ ദിശയിലേക്ക് നീങ്ങുന്നിടത്തോളം ഞങ്ങൾ പോയി ലേബൽ ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ എവിടെയാണ് ശരിയായ ദിശയിൽ നീങ്ങുന്നത് അതിനർത്ഥം 0 എന്ന ഡിടൂർ നമ്പർ എന്നാണ് അതിനാൽ ഞാൻ ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നത് കാണുകയാണെങ്കിൽ എനിക്ക് അടുത്തുള്ള സെല്ലിനെ 0 0 0 0 0 0 എന്ന ഒറ്റ സെല്ലിൽ തുടർച്ചയായി സ്വയം ലേബൽ ചെയ്യാൻ കഴിയും ഇതാണ് ആശയം പക്ഷേ എന്നിരുന്നാലും ഇവിടെ പാത തിരിച്ചുപിടിക്കുന്നത് അത്ര ലളിതമല്ല അതിനാൽ നിങ്ങൾക്ക് ചില അധിക വിവരങ്ങളും കുറച്ച് തിരയലുകളും ട്രാക്ക് ചെയ്യേണ്ട ചില ഡാറ്റാ ഘടന ആവശ്യമാണ് നിങ്ങൾ പണമടയ്ക്കുന്ന വിലയാണിത് അതിനാൽ ഈ ഉദാഹരണത്തിനായി ഈ ഹാഡ്ലോകിന്റെ അൽഗോരിതംHadlock's algorithm ചിത്രീകരിക്കുക ബ്ലാക്ക് റീജനുകളുള്ള ഗ്രിഡ് സെല്ലുകളുടെ ഈ നിര ആണ് തടസ്സങ്ങൾ ഇതാണ് സോഴ്സ് ഇത് നിങ്ങളുടെ ടാർഗെറ്റാണ് അതിനാൽ എസ് മുതൽ ഈ സെല്ലുകൾ ഡിടൂർ നമ്പർ ഉപയോഗിച്ചു ലേബലിംഗ് ആരംഭിക്കുന്നു ഒരു കാര്യം നോക്കൂ S ഇവിടെയുണ്ട് T എന്നത് S ന്റെ വലത്തോട്ടും മുകളിലുമുള്ളതാണ് അതിനാൽ വലത്തോട്ടോ മുകളിലോട്ടോ ഉള്ള ഏതൊരു ചലനവും ഡിടൂർ നമ്പർ വർദ്ധിപ്പിക്കില്ല അതിനാൽ നിങ്ങൾ ശരിയായ ദിശയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇതിനർത്ഥം എന്നാൽ മുകൾഭാഗം തടഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് മുകളിലേക്ക് നീങ്ങാൻ കഴിയില്ല നിങ്ങൾക്ക് ശരിയായ ദിശയിലേക്ക് നീങ്ങാനുള്ള ഒരേയൊരു മാർഗ്ഗം വലത്തേക്ക് നീങ്ങുക എന്നതാണ് അതിനാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇവിടെയും ഇവിടെയും 2 സെല്ലുകൾ നീക്കാൻ കഴിയും അതിനുശേഷം നിങ്ങൾ വീണ്ടും നിർത്തുക നിങ്ങൾക്ക് ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ കഴിയില്ല കാരണം വലത്തേയും മുകളിലേയും രണ്ടും തടഞ്ഞിരിക്കുന്നു അതിനാൽ ആദ്യ ഘട്ടത്തിൽ നിങ്ങൾ ഇതുപോലെ ലേബൽ ചെയ്യുന്നു ഈ ഡിടൂർ നമ്പർ പൂജ്യം അതായത് നിങ്ങൾ ശരിയായ ദിശയിലാണ് നീങ്ങുന്നത് നിങ്ങൾക്ക് ഇത്രയും വരെ മാത്രമേ നീങ്ങാൻ കഴിയൂ ഇതിനുശേഷം നിങ്ങൾക്ക് കൂടുതൽ നീങ്ങാൻ കഴിയില്ല അതിനാൽ നിങ്ങൾ ഒരു ഡിടൂർ പോകേണ്ടിവരും അതിനാൽ നിങ്ങൾക്ക് എന്ത് വഴിതിരിച്ചുവിടാൻ കഴിയും അതിനാൽ 0 മുതൽ നമുക്ക് ഈ വശം നീക്കാം 0 നിങ്ങൾക്ക് ഈ വശം നീക്കാം S ൽ നിന്ന് നിങ്ങൾക്ക് ഈ വശം S ൽ നിന്ന് ഇടത്തേക്ക് നീക്കാം ഇതെല്ലാം അർത്ഥമാക്കുന്നത് 1 ന്റെ വഴിമാറി അർത്ഥം അതായത് നിങ്ങൾ ചലിക്കുന്ന ഒരു സെൽ ടിയിൽ നിന്ന് അകന്നുപോകുന്നു അതായത് ഇതുപോലെ ഇത് മാത്രമല്ല അതിനാൽ നിങ്ങൾ ഒരു സെല്ലിനെ S ന്റെ ഇടതുവശത്തേക്ക് മാറ്റി ഈ സെല്ലിനെ 1 എന്ന് ലേബൽ ചെയ്തുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കഴിയുന്നത്ര ഒന്നല്ല ദിശയിലേക്ക് നീങ്ങുന്നിടത്തോളം ഈ സെല്ലുകൾ ലേബൽ ചെയ്യാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അതിനാൽ നിങ്ങൾ ഇവിടെ നിന്ന് പ്രക്രിയ തുടരുക നിങ്ങൾ ഈ പ്രത്യേക സെല്ലിനെ 1 എന്ന് ലേബൽ ചെയ്താൽ ഇവിടെ നിന്ന് നിങ്ങളുടെ T വലത്തോട്ടും മുകളിലോട്ടും കാണാം അതിനാൽ മുകളിലോ വലത്തോട്ടോ ഉള്ള ഏത് സെല്ലും നിങ്ങൾക്ക് 1 1 1 ഉപയോഗിച്ച് ലേബൽ ചെയ്യാവുന്നതാണ് കാരണം നിങ്ങൾ മറ്റൊരു വഴിമാറി പോകുന്നില്ല വഴിമാറി പോകുന്നില്ല അതിനാൽ d കൂടുന്നില്ല അതിനാൽ നിങ്ങൾ ഇവിടെ എത്തുന്നതുവരെ ലേബൽ ചെയ്യുന്നത് ശരിയാണ് എന്നാൽ നിങ്ങൾ ഇനിയും എത്തുകയാണെങ്കിൽ ഇത് മറ്റൊരു വഴിമാറി പോകും കാരണം നിങ്ങൾ T യ്ക്ക് മുകളിൽ പോകുന്നു അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലേക്ക് നീങ്ങണമെങ്കിൽ ഇവ 2 ലേബലുകളായി മാറും അതിനാൽ നിങ്ങളുടെ ഡിടൂർ നമ്പർ വർദ്ധിക്കാത്തിടത്തോളം കാലം നിങ്ങൾ ഇവിടെ ലേബൽ ചെയ്യുക അതിനാൽ രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്ക് വളരെയധികം കോശങ്ങൾ അനുഭവപ്പെടുന്നു നിങ്ങൾ ഇത് മൂന്നാം ഘട്ടം ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾ മറ്റൊരു വഴിമാറണം അതായത് നിങ്ങൾ ഒന്നുകിൽ മുകളിലേക്ക് നീങ്ങുക അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഇടത്തോട്ട് നീങ്ങുക അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ താഴേക്ക് നീങ്ങുക അതിനാൽ ഇതുപോലെ ഈ സെല്ലുകൾ നിങ്ങളെ ഇവിടെ 2 2 എന്ന് അടയാളപ്പെടുത്തും ശരിയായ ദിശയിൽ മറ്റൊരു വഴിയും ഇല്ലാത്തതിനാൽ ടിയിൽ എത്താൻ നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ പോയതായി ഇവിടെ നിന്ന് വീണ്ടും കാണുന്നു നിങ്ങൾ മുകളിലേക്കോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ 3 എല്ലാം നീങ്ങണം എന്നാൽ ഈ സെല്ലിൽ 3 ആയി നീങ്ങിയാൽ ഈ 2 നിങ്ങൾ കാണും അവിടെ നിന്ന് നിങ്ങളുടെ T വലതുവശത്തും താഴെയുമായി 3 3 3 3 3 ആയി തുടരാം എന്ന് പറയുക അതായത് നിങ്ങൾക്ക് ഇതുപോലൊന്ന് ലഭിക്കും അതിനാൽ ഇവിടെ നിങ്ങൾക്ക് ഡിടൂർ നമ്പർ 3 ലഭിക്കുന്നു എന്നാൽ ഇവിടെ നിങ്ങൾക്ക് 3 ലഭിക്കുമ്പോൾ നിങ്ങൾക്ക് 3 ൽ തുടരാം കാരണം ഇത് ഇവിടെ കൂടുതൽ വഴിതിരിച്ചുവിടുന്നില്ല അതിനാൽ നിങ്ങൾക്ക് ഒരു പാത ലഭിച്ചു പാത ഇതുപോലെ കാണപ്പെടും അതിനാൽ നിങ്ങൾ എവിടെയാണ് 3 വഴിതിരിച്ചുവിട്ടത് ഇവിടെ ഒരു വളവ് ഇവിടെ മറ്റൊരു വഴിത്തിരിവ് ഇവിടെ മറ്റൊരു വഴിത്തിരിവ് അതിനാൽ നിങ്ങളുടെ മൊത്തം പാത ദൈർഘ്യം മാൻഹട്ടൻ ദൂരമാണ് എസ് ടി എന്നിവയ്ക്കിടയിലുള്ള ദൂരവും d ആയി രണ്ടുതവണയും അത് 3 ആണ് എന്നാൽ ഈ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതു പോലെ റിട്രേസിംഗ് നിസ്സാരമല്ല നിങ്ങൾ ലേബൽ ചെയ്തിരിക്കുന്ന ഈ സെല്ലുകളിൽ എന്തെങ്കിലും തരത്തിലുള്ള തിരച്ചിൽ നടത്തേണ്ടതുണ്ട് അതിനാൽ ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ നിങ്ങളുടെ റിട്രേസിംഗ് ഇവിടെ കുറച്ചുകൂടി സങ്കീർണ്ണമാണെന്ന് ഓർക്കുക എന്നാൽ ഓരോ ഘട്ടത്തിലും നിങ്ങൾ നീങ്ങുന്നിടത്തോളം കാലം നിങ്ങൾ നിരവധി സെല്ലുകളെ ശരിയായ ദിശയിൽ ലേബൽ ചെയ്യുന്നു എന്നതാണ് നേട്ടം നിങ്ങൾ തെറ്റായ ദിശയിൽ ലേബലുകൾ അനാവശ്യമായി പ്രചരിപ്പിക്കുന്നില്ല ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾ അകന്നു പോകുന്നു ശരിയായ ദിശയിലേക്ക് നീങ്ങാൻ കഴിയില്ലെന്ന് നിങ്ങൾ കാണുമ്പോൾ മാത്രം അപ്പോൾ മാത്രമേ നിങ്ങൾ അകന്നു പോകൂ പ്രകടനത്തിലെ ഹാഡ്ലോക്കിന്റെ അൽഗോരിതംHadlock's algorithm ലീയുടെ അൽഗോരിതത്തേക്കാൾLee's algorithm മികച്ചതാണ് കാരണം ഇത് പൊതുവെ കുറച്ച് സെല്ലുകളെ ലേബൽ ചെയ്യുകയും സ്വാഭാവികമായി വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പക്ഷേ മെമ്മറി സങ്കീർണ്ണതയോ സംഭരണ സങ്കീർണ്ണതയോ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നതാണ് പ്രശ്നം കാരണം ഇവിടെയും നിങ്ങൾ ഡാറ്റ ഘടന 2 ഡൈമൻഷണൽ അറേ ഉള്ളതുപോലെ സൂക്ഷിക്കുന്നു അതിനാൽ ഇത് 2000 ബൈ 2000 ഗ്രിഡ് ആണെങ്കിൽ ഈ സെല്ലുകളുടെ ഓരോ നിലയും ശരിയായി സംഭരിക്കുന്നതിന് നിങ്ങൾ 2000 ബൈ 2000 അറേ നിലനിർത്തേണ്ടതുണ്ട് അതിനാൽ ഇവയാണ് ഇവ സൂചിപ്പിച്ചിരിക്കുന്ന നേട്ടങ്ങൾ തീർച്ചയായും പ്രവർത്തന സമയം കൃത്യമായി വിശകലനം ചെയ്യാൻ പ്രയാസമാണ് എന്നാൽ N ബൈ N ഗ്രിഡിന് 2 പോയിന്റുകൾ ബന്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തന സമയം Ο എന്നതിൽ നിന്ന് ശ്രേണിയിലാണെന്ന് കണ്ടെത്തി N സ്ക്വയർ ഓർഡർ ചെയ്യാനുള്ള ലീനിയർ ടൈം അൽഗോരിതം ഇത് തീർച്ചയായും എസ് ടി എന്നിവയുടെ സ്ഥാനങ്ങളായ തടസ്സങ്ങൾ എവിടെയാണ് സ്ഥിതിചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ഇപ്പോൾ എന്നാൽ ഇത് ശരാശരി കേസ് ആണ് ഇനി നമുക്ക് അൽഗരിതംസ് ലൈൻ സെർച്ച് അൽഗോരിതത്തിന്റെ ഒരു ഇതര ക്ലാസിലേക്ക് വരാം ഇവിടെ ആദ്യം അടിസ്ഥാന ആശയം പറയാൻ ശ്രമിക്കാം ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് മെയിസ് റണ്ണിംഗ് അൽഗോരിതങ്ങളിൽ ഞങ്ങൾ അടിസ്ഥാനപരമായി 2 ഡൈമൻഷണൽ അറേയുടെ ലേഔട്ട് ഉപരിതലത്തെ പ്രതിനിധീകരിക്കുന്നു അവിടെ അറേയുടെ ഓരോ ഘടകവും സെല്ലായി പ്രതിനിധീകരിക്കുന്നു ഞങ്ങൾ സെല്ലിനെ ലേബൽ ചെയ്യുകയും ഏതെങ്കിലും തരത്തിലുള്ള തിരയൽ നടത്തുകയും ചെയ്തു അതിനാൽ ഉറവിടത്തിൽ നിന്ന് ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു പക്ഷേ ലൈൻ തിരയൽ അൽഗോരിതത്തിന്റെ കാര്യത്തിൽ ആശയം കുറച്ച് വ്യത്യസ്തമാണ് ഞാൻ ഇനി ഒരു 2 ഡൈമൻഷണൽ അറേ ആയി ഏരിയയെ പ്രതിനിധീകരിക്കുന്നില്ല ഇവിടെയിരിക്കാനുള്ള ആകെ ഏരിയ മാത്രമേ എനിക്കുള്ളൂ ഇവിടെ ഞങ്ങൾ നിരവധി നേർരേഖകളെക്കുറിച്ചുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നു അതിനാൽ ഇവിടെ നമ്മുടെ ഡാറ്റ ഘടന വ്യത്യസ്തമായിരിക്കും നിങ്ങൾ നേർരേഖകളുടെ എണ്ണം നിലനിർത്തണം നേർരേഖയെ അവയുടെ അവസാന കോർഡിനേറ്റുകളാൽ പ്രതിനിധീകരിക്കാം രണ്ട് കോർഡിനേറ്റുകൾ നേർരേഖയെ അർത്ഥമാക്കുന്നു കൂടാതെ 2 നേർരേഖകൾ പരസ്പരം വിഭജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇന്റർസെൿട് ചെയ്യുകയാണെങ്കിൽ ഏതാണ് ഇന്റർസെക്ഷൻ പോയിന്റ് ശരി നിങ്ങളുടെ സിമ്പിൾ കോർഡിനേറ്റ ജോമേറ്ററി നിങ്ങൾക്ക് ഇതിനകം തന്നെ അറിയാം ഇത് സ്കൂൾ ഗണിത സ്റ്റാഫ് എളുപ്പമാണെന്ന് അർത്ഥമാക്കുന്നു അതിനാൽ ഞാൻ പ്രധാന വിശദാംശങ്ങൾ വിശദീകരിക്കുന്നതിന് മുമ്പ് അതിന്റെ പിന്നിലെ പ്രചോദനം വിശദീകരിക്കാൻ ശ്രമിക്കാം എനിക്ക് ഒരു ചതുരാകൃതിയിലുള്ള പ്രദേശമുണ്ടെന്ന് കരുതുക അതിൽ എനിക്ക് പോയിന്റുകൾ നൽകണം എന്നതാണ് ആശയം എനിക്ക് ഇവിടെ ഒരു ഉറവിടം ഉണ്ടെന്ന് പറയട്ടെ എനിക്ക് ഇവിടെ ഒരു ലക്ഷ്യമുണ്ട് മുമ്പത്തെ സന്ദർഭത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഗ്രിഡിലെ അടുത്തുള്ള സെല്ലുകളെ ലേബൽ ചെയ്യുന്ന തരംഗ മുന്നണികൾ പ്രചരിപ്പിക്കുകയായിരുന്നു അതിനാൽ സംഖ്യകൾ ഒടുവിൽ ടിയിൽ എത്തും എന്നാൽ ഇവിടെ ഞങ്ങൾ വളരെ ലളിതമായ ഒരു ആശയം ഉപയോഗിക്കുന്നു തടസ്സങ്ങളൊന്നുമില്ലെന്ന് കരുതുക തടസ്സങ്ങളുടെ സാന്നിധ്യത്തിൽ നമുക്ക് പിന്നീട് കാണാം ഇതിൽ നിന്ന് ഞാൻ എന്താണ് ചെയ്യുന്നത് ഈ പോയിന്റ് എസ് നിങ്ങൾ 2 നേർരേഖകൾ ഒന്ന് തിരശ്ചീനമായും ഒരു ലംബമായും സങ്കൽപ്പിക്കുക ഈ 2 നേർരേഖകൾ S ൽ നിന്നാണ് വരുന്നത് അവയെ S1 S2 എന്ന് വിളിക്കുക അതുപോലെ T യിൽ നിന്ന് നിങ്ങൾ സമാനമായ രീതിയിൽ ആരംഭിക്കുന്നു തിരശ്ചീനവും ലംബവുമായ ഒരു നേർരേഖ അവയെ T1 എന്നും T1 എന്നും വിളിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടെത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് LS ഉള്ള ഡാറ്റാ ഘടനയെക്കുറിച്ച് വീണ്ടും സംസാരിക്കുന്നു LS എന്നത് S ൽ നിന്ന് ആരംഭിക്കുന്ന വരികളുടെ കൂട്ടമാണ് അതുപോലെ T യിൽ നിന്ന് ആരംഭിക്കുന്ന വരികളുടെ കൂട്ടമാണ് നിങ്ങൾക്ക് LT ഉള്ളത് ഇപ്പോൾ ഓരോ ഘട്ടത്തിലും LS ൽ നിന്നുള്ള ഏതെങ്കിലും വരി LT യെ വിഭജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഞങ്ങൾ പരിശോധിക്കുന്നു ഞങ്ങൾ പറയുന്നു ഇത് സെറ്റ് കവലയാണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ L ൽ നിന്നുള്ള രേഖയാണ് അതിനെ വിഭജിക്കുന്നുണ്ടോ എന്നാണ് അതിനർത്ഥം നിങ്ങൾ പരിശോധിക്കുന്നത് L1 S ന്റെതാണോ എന്ന് പറയട്ടെ LS ന്റെ L2 ന്റെ L2 എന്ന മറ്റൊരു വരിയെ LS വിഭജിക്കുന്നു അതിനാൽ ഞങ്ങൾ ഇത് ഓരോ ഘട്ടത്തിലും പരിശോധിക്കുന്നു ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ഇന്റർസെക്ഷൻ ഒരു ഇന്റർസെക്ഷൻ സംഭവിക്കുന്നത് പോലെ ഒന്നിലധികം ഇന്റർസെക്ഷൻ ഉണ്ടാകാം ഇതിനെ ഇന്റർസെക്ഷൻ ആയി കണക്കാക്കാം ഇന്റർസെക്ഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് T വരെയും S വരെയും തിരികെ കണ്ടെത്താനാകും T ലേക്ക് പോകുന്നതിന് നമുക്ക് ചുവന്ന വരകൾ കണ്ടെത്താം S ലേക്ക് പോകുന്നതിന് പച്ച വരകൾ കണ്ടെത്താം അതിനാൽ നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങൾ കാണുന്നു ഞങ്ങൾക്ക് ഇതിനകം തന്നെ എസ് ടി എന്നിവയ്ക്കിടയിൽ ഒരു പാത ലഭിച്ചു ആശയം വളരെ ലളിതമാണ് ഇങ്ങനെയാണ് S നും T യ്ക്കും ഇടയിലുള്ള ഒരു പാത നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുന്ന നേട്ടം അതിനാൽ ഞങ്ങൾ സെല്ലുകളെ ലേബൽ ചെയ്യുന്നില്ല ഞങ്ങൾ വളരെ വലിയ സംഭരണം ഉപയോഗിക്കുന്നില്ല

ഈ പ്രത്യേക ഉദാഹരണത്തിൽ മാത്രം നമുക്ക് 4 നേർരേഖകൾ ട്രാക്ക് ചെയ്യണം അതായത് 4 മുതൽ 2 8 കോർഡിനേറ്റുകൾ കോർഡിനേറ്റ് എന്താണെന്ന് ക്രോസ് ചെയ്താൽ വരികൾ കടന്നുപോകുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ചില ലളിതമായ കോർഡിനേറ്റ് ജോമേറ്ററി അൽഗോരിതം ഉപയോഗിക്കാം അതിനാൽ ഞങ്ങൾക്ക് കോർഡിനേറ്റ് ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് തടസ്സങ്ങളുടെ പാത സൃഷ്ടിക്കുന്ന ലൈൻ സെഗ്മെന്റുകൾ ലഭിക്കും തീർച്ചയായും നിങ്ങളുടെ ഡാറ്റാ ഘടനയിലെ തടസ്സങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇവയാണ് ചില തടസ്സങ്ങൾ ഉള്ള സ്ഥലങ്ങൾ അതിനാൽ നിങ്ങളുടെ ഡാറ്റാ ഘടന നേർരേഖകളേക്കാൾ അൽപ്പം സങ്കീർണ്ണമായിരിക്കും നേർരേഖകൾ മാത്രമല്ല ഇതിനകം സ്ഥാപിച്ചിട്ടുള്ള ചില തടസ്സങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചില ദീർഘചതുരങ്ങളെയും നിങ്ങൾ പ്രതിനിധീകരിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഒരു തടസ്സത്തിലൂടെ ഒരു ലൈൻ ഓടിക്കാൻ കഴിയില്ല നിങ്ങൾ മറ്റേതെങ്കിലും പാത പിന്തുടരേണ്ടതുണ്ട് നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് മടങ്ങാം അതിനാൽ ഈ ലൈൻ തിരയൽ അൽഗോരിതത്തിലെ അടിസ്ഥാന ആശയം ഞാൻ കാണിച്ച ഉദാഹരണം മാത്രമാണ് അതിനാൽ ഇവിടെ ഒരു കാര്യം പ്രസ്താവിക്കുന്നു അതിനാൽ തടസ്സങ്ങളൊന്നുമില്ലെന്ന് കരുതുന്നത് S വഴിയുള്ള ഒരു ലംബ വരയും T വഴി ഒരു തിരശ്ചീന രേഖയും വിഭജിക്കുകയും തിരിച്ചും സംഭവിക്കുകയും ചെയ്യും അതിനാൽ എസ് വഴിയുള്ള ചില തിരശ്ചീന രേഖയും ടി വഴിയുള്ള ലംബ വരകളും കൂടിച്ചേരാൻ കഴിയും ഞങ്ങൾക്ക് ഒരു കവല ലഭിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് S യ്ക്കും T യ്ക്കും ഇടയിലുള്ള മാൻഹട്ടൻ പാത ലഭിക്കും അത് ഏറ്റവും ചെറിയ പാതയായിരിക്കും എന്നാൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ സങ്കീർണ്ണത വർദ്ധിക്കുകയും നിങ്ങൾക്ക് അത്തരം നിരവധി വരികൾ വരയ്ക്കേണ്ടി വന്നേക്കാം ഇപ്പോൾ ഈ ലൈൻ തിരയൽ അൽഗോരിതങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവ വളരെ വേഗതയുള്ളതും ഏരിയ റൂട്ടിംഗ് ചെയ്യുന്ന മിക്ക CAD അൽഗോരിതങ്ങളും ഈ ലൈൻ തിരയൽ അൽഗോരിതങ്ങളെ ആശ്രയിക്കുന്നു എന്നാൽ ഈ അൽഗോരിതങ്ങൾ എല്ലായ്പ്പോഴും മികച്ച പാത സൃഷ്ടിക്കുമെന്ന് ഉറപ്പ് നൽകുന്നില്ല ഏറ്റവും ചെറിയ പാത രണ്ടാമതായി അവർക്ക് ബാക്ക്ട്രാക്കിംഗ് ആവശ്യമായി വന്നേക്കാം കാരണം നിങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ഒരു നല്ല പാതയാണ് നിങ്ങൾ പിന്തുടരുന്നത് നിങ്ങൾ തിരികെ പോയി ഒരു ഇതര പാത പരീക്ഷിക്കേണ്ടി വന്നേക്കാം അത്തരം സാഹചര്യങ്ങളും സംഭവിക്കാം ഞാൻ പറഞ്ഞതുപോലെ റൂട്ടിംഗ് ഏരിയയെയും പാതകളെയും പ്രതിനിധീകരിക്കുന്നത് ലൈനുകളുടെ കൂട്ടമാണ് അല്ലാതെ മേസ് റൂട്ടിംഗ് അൽഗോരിതങ്ങളിലെ പോലെ 2 ഡൈമൻഷണൽ മാട്രിക്സ് ആയിട്ടല്ല അതിനാൽ ഞങ്ങൾ 2 വ്യത്യസ്ത അൽഗോരിതങ്ങൾ നോക്കും ഞങ്ങൾ ആദ്യം പരാമർശിക്കുന്ന Mikami Tabuchis അൽഗോരിതം ഈ അൽഗോരിതം നിർദ്ദേശിക്കുന്ന 2 വ്യക്തികൾ ഇവരാണ് അതിനാൽ ഈ ഘട്ടം ഇവിടെ വിശദീകരിക്കാം തുടർന്ന് ഞാൻ ഒരു ഉദാഹരണം ഉപയോഗിച്ച് വിശദീകരിക്കാം അതിനാൽ ബന്ധിപ്പിക്കേണ്ട 2 ടെർമിനലുകൾ എസ് ടി എന്നിവയാണ് അതിനാൽ ഇനീഷ്യലൈസേഷൻ ഘട്ടം നമുക്ക് അതിനെ സ്റ്റെപ്പ് 0 എന്ന് വിളിക്കാം എസ് ടി എന്നിവയിലൂടെ 4 വരികൾ 2 തിരശ്ചീനവും 2 ലംബവും സൃഷ്ടിക്കുക നമുക്ക് ഒരു ഉദാഹരണം ഉപയോഗിച്ച് ഘട്ടം ഘട്ടമായി പ്രവർത്തിക്കാം എസ് ടി എന്നിവയിലൂടെ കടന്നുപോകുന്ന 4 ലൈനുകൾ സൃഷ്ടിക്കുക നമുക്ക് ഇതുപോലെ ഒരു ഉദാഹരണം എടുക്കാം ഈ ഉദാഹരണം നോക്കുക ഈ ഉദാഹരണം സോഴ്സ് പോയിന്റ് ടാർഗെറ്റ് പോയിന്റും ഇതിനകം അവിടെയുള്ള ചില തടസ്സങ്ങളും കാണിക്കുന്നു അതിനാൽ ഘട്ടം 0 പറയുന്നത് ഞങ്ങൾ 4 വരികൾ സൃഷ്ടിക്കുന്നു അതിനാൽ S യിലൂടെ കടന്നുപോകുന്ന ഒരു തിരശ്ചീന രേഖയും ഇതിലൂടെ കടന്നുപോകുന്ന ഒരു ലംബ വരയും ഞാൻ സൃഷ്ടിക്കുന്നു ഞാൻ അവരെ S0 എന്നും S0 എന്നും വിളിക്കുന്നു അതുപോലെ ടാർഗെറ്റിൽ നിന്ന് ഞാൻ മറ്റൊരു നിറത്തിൽ ഒരു തിരശ്ചീന വരയും ഒരു ലംബ വരയും ഉപയോഗിക്കുന്നു നമുക്ക് അതിനെ വീണ്ടും T0 എന്നും T0 എന്നും വിളിക്കാം ഇതാണ് ആദ്യപടി ഇപ്പോൾ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ തടസ്സങ്ങൾ കാരണം ഈ വരികൾ വിഭജിക്കുന്നില്ല കാരണം ഈ ലൈനുകൾ നിലച്ചിരിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് കൂടുതൽ ആവർത്തന ഘട്ടങ്ങൾ ആവശ്യമാണ് അപ്പോൾ അടുത്തത് എന്താണ് ഈ ലൈനുകൾ തടസ്സങ്ങൾ അല്ലെങ്കിൽ ലേഔട്ടിന്റെ അതിർത്തിയിൽ എത്തുന്നതുവരെ നീട്ടാൻ അടുത്ത ഘട്ടം പറയുന്നു S ൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ T യിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ഒരു ലൈനിനെ വിഭജിക്കുകയാണെങ്കിൽ ഒരു ബന്ധിപ്പിക്കുന്ന പാത കണ്ടെത്തും അതിനാൽ ഈ വരികൾ തടസ്സങ്ങളുടെ അതിരുകൾ അല്ലെങ്കിൽ ലേഔട്ടിന്റെ അതിരുകൾ അടിക്കുന്നത് വരെ ഞങ്ങൾ നീട്ടിയതായി നിങ്ങൾ ഇവിടെ കാണുന്നു അവ അല്ലാത്തവ വിഭജിക്കുകയാണെങ്കിൽ അതിനാൽ അവ വിഭജിക്കുമായിരുന്നെങ്കിൽ ഉദാഹരണത്തിന് ലക്ഷ്യം ഇവിടെയായിരുന്നെങ്കിൽ ഈ തിരശ്ചീന രേഖ ഇവിടെ നേരിട്ട് ഛേദിക്കപ്പെടുമായിരുന്നു അതിനാൽ എനിക്ക് ഒരു വഴി ലഭിക്കുമായിരുന്നു പക്ഷേ അത് ഇതുവരെ മുറിച്ചിട്ടില്ല അതിനാൽ ഈ 4 വരികൾ ലെവൽ 0 ഈ 0 എന്നിവയുടെ ട്രയൽ ലൈനുകളായി കണക്കാക്കപ്പെടുന്നു കൂടാതെ സഫിക്സ് ലെവലിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ഇവിടെ പരാമർശിച്ചത് ഈ ഉദാഹരണത്തിൽ അവ വിഭജിക്കുന്നില്ലെങ്കിൽ അത് ലെവൽ 0 ന്റെ ട്രയൽ ലൈനുകളായി തിരിച്ചറിയപ്പെടുന്നതിനാൽ കൂടുതൽ പ്രോസസ്സിംഗിനായി ഞങ്ങൾ ഈ 4 നേർരേഖകൾ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ എങ്ങനെ കൈകാര്യം ചെയ്യും 0 നേക്കാൾ വലുതായ ആവർത്തനത്തിന്റെ നിങ്ങളുടെ ഘട്ടമാണിത് കാരണം നിങ്ങൾ ഇതിനകം തന്നെ ഘട്ടം 0 ചെയ്തിട്ടുണ്ട് ആശയം ലളിതമാണെന്ന് കാണുക നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ലെവൽ i മൈനസ് 1 ന്റെ ട്രയൽ ലൈനുകൾ ഒന്നൊന്നായി എടുക്കുക അതിനാൽ നിങ്ങൾ ഇപ്പോൾ 1 ാം ഘട്ടത്തിലാണ് ഞാൻ 1 ന് തുല്യമാണ് അതിനാൽ നിങ്ങൾ ലെവൽ 0 ന്റെ ട്രയൽ ലൈനുകൾ എടുക്കുക അത്തരത്തിലുള്ള 4 ഉണ്ട് ഒരു സമയം അതിനാൽ ട്രയൽ ലൈനിനൊപ്പം ഗ്രിഡ് പോയിന്റുകൾ കണ്ടെത്തുന്നു ഗ്രിഡ് പോയിന്റുകളിൽ നിന്ന് ആരംഭിച്ച് ഈ പുതിയ ലെവലിന്റെ പുതിയ ട്രയൽ ലൈനുകൾ i ജനറേറ്റുചെയ്യുന്നു അത് ലെവൽ i മൈനസ് 1 ന്റെ ട്രയൽ ലൈനിന് ലംബമായി നമുക്ക് ഇത് പ്രവർത്തിക്കാൻ ശ്രമിക്കാം അതിനാൽ ഞാൻ പറയുന്നത് 2 കാര്യങ്ങൾ ട്രയൽ ലൈനിനൊപ്പം ഗ്രിഡ് പോയിന്റുകൾ കണ്ടെത്തുകയും ഈ ഗ്രിഡിൽ നിന്ന് ആരംഭിക്കുന്ന പുതിയ ട്രയൽ ലൈനുകൾ അവ സൃഷ്ടിക്കുന്ന യഥാർത്ഥ ട്രയൽ ലൈനുകൾക്ക് ലംബമായി കാണുകയും ചെയ്യുന്നു അതിനാൽ നമുക്ക് ഒരു സമയം നോക്കാം നമുക്ക് ഇതൊന്ന് പറയാം ഈ തിരശ്ചീനം ഗ്രിഡിനൊപ്പം എനിക്ക് ഒരു ഗ്രിഡ് പോയിന്റും ഇവിടെയും ഒരു ഗ്രിഡ് പോയിന്റും ഉണ്ടെന്ന് പറയട്ടെ അതിനാൽ ഗ്രിഡ് പോയിന്റുകൾ സാങ്കൽപ്പികമാണ് ഗ്രിഡ് പോയിന്റുകൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോയിൽ സംഭരിച്ചിട്ടില്ല ഏറ്റവും കുറഞ്ഞ വേർതിരിവ് എന്താണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾ ഈ ഗ്രിഡ് പോയിന്റ് സങ്കൽപ്പിക്കുക നമുക്ക് 4 ഉണ്ട് എന്ന് പറയാം അതുപോലെ ഈ ലൈനിന് ഈ ദിശയിൽ ഇവിടെ ഒരു ഗ്രിഡ് പോയിന്റ് ഉണ്ടായിരിക്കാം കൂടാതെ ഇവിടെ ചില ഗ്രിഡ് പോയിന്റുകൾ ഉണ്ടാകാം ഇപ്പോൾ ഈ ഗ്രിഡിനൊപ്പം ഇതിന് ലംബമായ അടുത്ത ലെവൽ ട്രയൽ ദൈർഘ്യത്തിലൂടെ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നു അത് എന്നെ മറ്റൊരു നിറം ഉപയോഗിക്കട്ടെ ഞാൻ ഇതുപോലെയുള്ള ഒരു ട്രയൽ ലെങ്ത് ഉപയോഗിക്കുന്നുവെന്ന് പറയട്ടെ ഞാൻ അതിനെ S1 എന്ന് വിളിക്കുന്നു അതിനാൽ എല്ലാ ഗ്രിഡ് പോയിന്റുകളിലും ഞാൻ ഇത് ചെയ്യുന്നു ഞാൻ നിരവധി ട്രയൽ ലൈനുകൾ വരയ്ക്കുന്നു അവരിൽ ചിലർ തടസ്സങ്ങളെ അടിച്ചുകൊണ്ടേയിരിക്കും ചിലർ കടന്നുപോകും ഇതുപോലെ പോകും അതുപോലെ ഈ ദിശയിൽ അവർ മറ്റൊരു ദിശയിൽ തന്നെ ചെയ്യും ഇവയെല്ലാം S1 S1 S1 S1 S1 S1 എന്നിങ്ങനെ ലേബൽ ചെയ്യും അതുപോലെ ഈ ദിശയിൽ ഇതുപോലുള്ള ട്രയൽ ലൈനുകൾ ഉണ്ടാകും അവയെല്ലാം വീണ്ടും S1 എന്ന് ലേബൽ ചെയ്യും ഇവയെല്ലാം S1 ആണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്നത് നിങ്ങൾ ഇവിടെ ചെയ്യുമായിരുന്ന അതേ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതില്ല ഇവിടെയും പോലെ നിങ്ങൾ ഗ്രിഡ് പോയിന്റുകൾ തിരിച്ചറിയുമായിരുന്നു നിങ്ങൾ തിരശ്ചീന രേഖ ലംബമായ കാര്യങ്ങൾ വരച്ചു എന്നാൽ നിങ്ങൾ കാണുന്നത് ഇവിടെ ചുവപ്പും പച്ചയും വരകളുടെ ഒരു വിഭജനം ഇതിനകം ലഭിച്ചിട്ടുണ്ട് ഒന്ന് T ൽ നിന്ന് വരുന്നതും മറ്റൊന്ന് S ൽ നിന്ന് വരുന്നതും ഈ T0 ഉം S1 ഉം ഇവിടെ വിഭജിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പാത കവല ലഭിച്ചതിനാൽ നിങ്ങൾക്ക് ഒരു പാത കണ്ടെത്താനാകും ഇവിടെ വരെ പോലെ ഈ ഗ്രിഡ് പോയിന്റ് വരെ നിങ്ങൾ ഇവിടെ പോകൂ നിങ്ങൾക്ക് ഒരു പാത ലഭിച്ചു അതിനാൽ ആശയം വളരെ ലളിതമാണെന്ന് നിങ്ങൾ കാണുന്നു നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക ടിയിൽ നിന്ന് ആരംഭിക്കുന്ന ചില വരികളും എസ് ൽ ആരംഭിക്കുന്ന ചില വരികളും കൂടിച്ചേരുന്ന ഘട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേരും ഓരോ ഘട്ടത്തിലും നിങ്ങൾ ഈ പരിശോധന തുടരുന്നു ഒരിക്കൽ അവ കൂടിച്ചേർന്നാൽ നിങ്ങൾ ഒരു പാത നേടിയിരിക്കുന്നു എന്നർത്ഥം നിങ്ങൾക്ക് തിരികെ കണ്ടെത്താനും ഒരു പാത കണ്ടെത്താനും കഴിയും അതിനാൽ ഇതാണ് മികാമി തബുച്ചി അൽഗോരിതം പിന്നിലെ പ്രധാന ആശയം ഈ അൽഗോരിതം യഥാർത്ഥത്തിൽ അത് നിലവിലുണ്ടെങ്കിൽ ഒരു പാത കണ്ടെത്തുന്നതിന് ഉറപ്പുനൽകുന്നു ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ ഉദാഹരണം ഇപ്പോൾ ഇത് Mikami Tabuchi അൽഗോരിതം മെച്ചപ്പെടുത്തിയതായി നിങ്ങൾ കാണുന്നു Mikami Tabuchi ആൽഗരിതത്തിൽ ഞാൻ ഓരോ ഗ്രിഡ് പോയിന്റുകളും നോക്കുന്നു ഞാൻ ഓടുന്നു ഓരോ ഗ്രിഡ് പോയിന്റുകളിലും ലംബമായി നിരവധി വരികൾ അതിനാൽ ഹൈടവറിന്റെ അൽഗോരിതംHightower's algorithm പറയുന്നത് നിങ്ങൾ വളരെയധികം ലംബമായ വരികൾ പ്രവർത്തിപ്പിക്കേണ്ടതില്ല എന്നതാണ് വരികളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും അതിനാൽ വളരെ വേഗത്തിൽ ഈ ഘട്ടങ്ങൾ നോക്കാം അതിനാൽ ഒരു ട്രയൽ ലൈനിന് ലംബമായി ഉള്ള എല്ലാ ലൈൻ സെഗ്മെന്റുകളും സൃഷ്ടിക്കുന്നതിനുപകരം ലൈൻ തടഞ്ഞതും മുമ്പത്തെ വരി തടഞ്ഞതുമായ തടസ്സത്തിനപ്പുറം നീട്ടാൻ കഴിയുന്ന വരികൾ മാത്രമേ നിങ്ങൾ പരിഗണിക്കൂ അതിനാൽ നിങ്ങൾ എസ്കേപ്പ് പോയിന്റ് എസ്കേപ്പ് ലൈൻ എന്ന് വിളിക്കുന്ന എന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക ഞാൻ ഇത് ഉദാഹരണ സഹിതം വിശദീകരിക്കും അതിനാൽ നിങ്ങൾ എസ്കേപ്പ് പോയിന്റും എസ്കേപ്പ് ലൈനും കണ്ടെത്താൻ ശ്രമിക്കുകയും എസ്കേപ്പ് പോയിന്റുകളിൽ മാത്രം ലംബമായ വരകൾ വരയ്ക്കുകയും ചെയ്യുന്നു അൽഗോരിതത്തിന്റെ ഈ ഘട്ടങ്ങൾ സമാനമാണ് സ്രോതസ്സിലൂടെയും ലക്ഷ്യത്തിലൂടെയും നിങ്ങൾ തിരശ്ചീനവും ലംബവുമായ ഒരു രേഖ കടന്നുപോകുന്നു ആദ്യ ലെവൽ പേടകങ്ങൾ പാതയെ കണ്ടുമുട്ടിയാൽ കണ്ടെത്തുകയാണെങ്കിൽ അല്ലാത്തപക്ഷം മുമ്പത്തെ പ്രോബ് ലൈനിലേക്ക് ഒരു ലംബ രേഖ കടന്നുപോകുക എന്നാൽ എല്ലാ ഗ്രിഡ് പോയിന്റുകളിലും എസ്കേപ്പ് പോയിന്റുകളിൽ മാത്രമല്ല അതേ ഉദാഹരണമുള്ള ആശയം നോക്കാം അതിനാൽ ഞങ്ങൾ ഈ ഉദാഹരണം ഇവിടെ പരിഗണിക്കുന്നു വീണ്ടും അതേ ഉദാഹരണം അതിനാൽ ആദ്യ ഘട്ടം Mikami Tabuchi അൽഗോരിതം പോലെയാണ് ഞങ്ങൾ S T എന്നിവയിലൂടെ തിരശ്ചീനവും ലംബവുമായ രേഖകൾ പ്രവർത്തിപ്പിക്കുന്നു ശരി ഞാൻ അത് നിറത്തിൽ കാണിക്കുന്നു അതിനാൽ ലേബലുകൾ S0 ആയിരിക്കും ഇത് S0 ആയിരിക്കും ഇത് T0 ആയിരിക്കും ഇത് T0 ആയിരിക്കും ഇനി നമുക്ക് രക്ഷപ്പെടൽ പോയിന്റുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം എസ്കേപ്പ് പോയിന്റുകൾ കാണുക എന്നതിനർത്ഥം ഈ ലൈൻ കാണുക ഈ ലൈൻ ഈ തടസ്സത്തെ അടിക്കുന്നു ഒരു എസ്കേപ്പ് പോയിന്റായി തിരിച്ചറിയപ്പെടുന്ന തടസ്സത്തിന് തൊട്ടുമുമ്പുള്ള ഒരു ഗ്രിഡ് പോയിന്റ് അതിനാൽ ഇപ്പോൾ ഇവിടെ അത് സജ്ജീകരിക്കുന്നു അതുപോലെ ഈ വരി തടസ്സം നേരിടുന്നു അതിനാൽ അതിന് തൊട്ടുമുമ്പുള്ള നിങ്ങളുടെ ലൈൻ നിങ്ങൾക്ക് ഇത് ഒരു രക്ഷപ്പെടൽ പോയിന്റായി എടുക്കാം ലംബ രേഖ ഒരു തടസ്സവും ബാധിക്കാത്ത സാഹചര്യവും സമാനമാണ് അതിനാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രിഡ് പോയിന്റ് എടുക്കാം അതിനാൽ ഈ ഗ്രിഡ് പോയിന്റുകളിൽ നിങ്ങൾ ലംബമായ വരികൾ പ്രവർത്തിപ്പിക്കുന്നു നിങ്ങൾ ഇതുപോലെ ലംബമായ വരി പ്രവർത്തിപ്പിക്കുക ഇതിനെ S1 എന്ന് വിളിക്കുക ഒരു ലംബ വരയെ വിളിക്കുക ഇവിടെ ഒരു ലംബ രേഖ വരയ്ക്കുക ഇതിനെ S1 എന്ന് വിളിക്കുക ഇവിടെ മറ്റൊരു ലംബ വര വരയ്ക്കുക ഇതിനെയും S1 എന്ന് വിളിക്കുക ഇപ്പോൾ ഈ ലംബ വരകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതുപോലെയുള്ള രക്ഷപ്പെടൽ പോയിന്റ് തിരിച്ചറിയുന്നു നിങ്ങൾ ഈ വരി എസ് 1 കാണുന്നു ഇത് തടസ്സ സമാന്തരത്തിന് വളരെ അടുത്താണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇത് മറ്റെവിടെയും അടിക്കുന്നില്ല അത് ഇവിടെ അടിക്കുന്നു അതിനാൽ അർത്ഥമാക്കുന്നത് ഇവിടെ ഒരു എസ്കേപ്പ് പോയിന്റ് ലഭിക്കും മറ്റൊന്ന് അത് തടസ്സത്തിന്റെ അതിർത്തി കടക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നു അത് ഇവിടെയുണ്ട് അതിനാൽ അതിനപ്പുറം ഇത് മറ്റൊരു എസ്കേപ്പ് പോയിന്റായിരിക്കും അതുപോലെ ഈ വരി എസ് 1 ന് അതിനാൽ അത് തീർച്ചയായും ഇവിടെ അടിക്കുന്നുണ്ട് ഇവിടെയാണ് അത് അതിർത്തി കടക്കുന്നത് അതിനാൽ ഇവിടെ ഒരു എസ്കേപ്പ് പോയിന്റ് ഉണ്ടാകും അതുപോലെ ഈ പച്ച വരി എസ് 1 ന് അതിനാൽ ഇവിടെ നിർവചിച്ചിരിക്കുന്ന ഒരു എസ്കേപ്പ് പോയിന്റ് ഉണ്ടായിരിക്കും അത് ഇത് ക്രോസ് ചെയ്യുന്നിടത്ത് മറ്റൊരു എസ്കേപ്പ് പോയിന്റ് ഇവിടെ നിർവചിച്ചിരിക്കുന്നത് ഇതിനെ മറികടക്കുന്നു അതിനാൽ ഈ രക്ഷപ്പെടൽ പോയിന്റിൽ നിങ്ങൾ മറ്റൊരു ലംബ വരകൾ നിർവചിച്ചു അതിനാൽ ഇതിനായി ലംബ രേഖ ഇതുപോലെയായിരിക്കും ഇത് നിങ്ങളുടെ S2 ആയിരിക്കും ഇതിൽ നിങ്ങളുടെ ലംബ രേഖ ഇതായിരിക്കും ഇതും S2 ആയിരിക്കും അതിനാൽ ഇതിൽ ലംബ രേഖ ഇതുപോലെയായിരിക്കും അതിനാൽ ഈ പ്രക്രിയ തുടരും ഇത് T2 ആയിരിക്കും ഇവിടെ ഇത് ഇഷ്ടപ്പെടും അതിനാൽ ഇപ്പോൾ S ൽ നിന്നുള്ള ഒരു വരിയും T യിൽ നിന്നുള്ള ഒരു വരിയും കൂടിച്ചേർന്നതായി നിങ്ങൾ കണ്ടു ഇപ്പോൾ അവ വാസ്തവത്തിൽ അത്തരത്തിലുള്ള പലതും അതിനാൽ അത്തരത്തിലുള്ള ഒരു കവല ഇവിടെ ഉണ്ടോ അത്തരത്തിലുള്ള ഒരു കവല ഇവിടെയുണ്ട് നിങ്ങൾക്ക് അവയിലേതെങ്കിലും എടുക്കാം ഉദാഹരണത്തിന് നിങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ ഈ കവല പറയാം അപ്പോൾ നിങ്ങളുടെ പാത ഇതുപോലെ ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ പാത ഇതിലൂടെയായിരിക്കും അതിനാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അതിനാൽ ഹൈടവറിന്റെ അൽഗോരിതത്തിൽ നിങ്ങൾക്ക് തടസ്സങ്ങളുടെ അതിരുകൾക്ക് അടുത്തായി ഓടുന്ന ചില പാതകൾ സൃഷ്ടിക്കാൻ കഴിയും അത് അനാവശ്യമായി ശേഷിക്കുന്ന പാതയെ തടസ്സപ്പെടുത്തില്ല കാരണം നിങ്ങൾ ഇതുപോലെ ഒരു വയർ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ മറ്റ് വയറുകൾ ഈ ഭാഗത്ത് വരുന്നത് അനാവശ്യമായി തടയും അതിനാൽ തടസ്സങ്ങളുടെ അതിരുകൾക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന ചില വരികൾ ഉപയോഗിച്ച് പാതകൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു അതിനാൽ ഹൈടവറിന്റെ അൽഗോരിതത്തിന്Hightower's algorithm പിന്നിലെ അടിസ്ഥാന ആശയം ഇതാണ് നിങ്ങൾ പരിഗണിക്കുന്ന നിരവധി ലൈനുകൾ മികാമി തബുച്ചി അൽഗോരിതം വളരെ കുറവാണ് എന്നാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേയൊരു കണക്കുകൂട്ടൽ നിങ്ങൾ എസ്കേപ്പ് പോയിന്റുകൾ തിരിച്ചറിയണം എന്നതാണ് അതിനാൽ ഇതും വളരെ അല്ല കമ്പ്യൂട്ടേഷണൽ ഉൾപ്പെട്ടിട്ടില്ല ചതുരാകൃതിയിലുള്ള തടസ്സങ്ങൾ സംഭരിക്കുന്നതിനുള്ള ഡാറ്റാ ഘടന നിങ്ങൾക്കുണ്ട് ലളിതമായ കോർഡിനേറ്റ് ജോമേറ്ററി ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ രക്ഷപ്പെടൽ പോയിന്റുകൾ തിരിച്ചറിയാൻ കഴിയും അതിനാൽ അവസാനമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്റ്റൈനർ ട്രീകൾ എന്ന് വിളിക്കപ്പെടുന്ന ചിലത് ചുരുക്കമായി നോക്കാം സ്റ്റൈനർ ട്രീ എന്നാൽ തിരശ്ചീനവും ലംബവുമായ ഭാഗങ്ങളാൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു കൂട്ടം പോയിന്റുകളെ ചതുരാകൃതിയിലുള്ള സ്റ്റൈനർ ട്രീ എന്ന് വിളിക്കുന്നു ഇവിടെ പോലെ ടെർമിനലുകൾ ഉള്ള സ്ഥലങ്ങളിൽ പോലും ചില വളവുകൾ അനുവദനീയമാണ് ഇപ്പോൾ സ്റ്റെയ്നർ ട്രീയുടെ പ്രയോജനം ഞങ്ങൾ യഥാർത്ഥത്തിൽ ലേഔട്ട്ചെയ്യുന്നത് ഇങ്ങനെയാണ് ലളിതമായ പോയിന്റ് ടു പോയിന്റ് റൂട്ടിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്റർകണക്ഷൻ ദൈർഘ്യം കുറവാണ് എന്നാൽ പ്രശ്നം ഏറ്റവും ഉയരം കുറഞ്ഞ സ്റ്റൈനർ മരമാണ് സ്റ്റെയ്നർ മിനിമൽ ട്രീ പ്രശ്നം കണ്ടെത്തുന്നത് കമ്പ്യൂട്ടേഷണൽ സങ്കീർണ്ണമാണ് അതിനാൽ സ്റ്റെയ്നർ ട്രീ ബേസ് അൽഗോരിതങ്ങൾ ഉണ്ട് ഞങ്ങൾ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല അതിനാൽ മരത്തിന്റെ അരികുകളുടെ ചില നീളം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ ഇവിടെ ശ്രമിക്കുന്നു കൃത്യമായ പതിപ്പുകൾ നിലവിലുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ അവ ഒരു NP ഹാർഡ് പ്രശ്നമാണ് വളരെ ചെറിയ പ്രശ്നങ്ങൾക്ക് മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ പരിഹാരം ലഭിക്കൂ എന്നാൽ ഏകദേശ ഹ്യൂറിസ്റ്റിക്സിലെ വലിയ പ്രശ്നങ്ങൾക്ക് നിലവിലുണ്ട് കൂടാതെ നിങ്ങൾക്ക് വെയ്റ്റഡ് സ്റ്റൈനർ ട്രീ എന്നതിനർത്ഥം എല്ലാ അരികുകൾക്കും തുല്യമായ ഭാരം നൽകുന്നതിനുപകരം ഒരു വെയ്റ്റ് പാരാമീറ്റർ W ഉള്ള ഒരു സെഗ്മെന്റിന്റെ നീളം കൊണ്ട് നിങ്ങൾ ഭാരം ഗുണിക്കുക എന്നതാണ് ഈ ഭാരം ആ പ്രദേശത്തിന്റെ തിരക്കിനെ സൂചിപ്പിക്കുന്നു അതിനാൽ തിരക്കേറിയ ഞങ്ങളുടെ പ്രദേശത്തുകൂടി നിങ്ങൾ ഒരു നെറ്റ് ഓടിക്കുന്നുവെങ്കിൽ ഭാരം മൂല്യം കൂടുതലായിരിക്കണം തിരക്കേറിയ പ്രദേശങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ശ്രമിക്കണം അനിയന്ത്രിതമായ ഓറിയന്റേഷനുള്ള സ്റ്റെയ്നർ മരത്തിൽ ചില ജോലികൾ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഡയഗണൽ കണക്ഷനുകൾ 45 ഡിഗ്രി ആംഗിൾ കണക്ഷനുകളും അനുവദനീയമാണ് അതിനാൽ സ്റ്റൈനർ ട്രീയെ അടിസ്ഥാനമാക്കിയുള്ള ചില ഗ്രിഡ് റൂട്ടിംഗ് അൽഗോരിതങ്ങൾ ഉണ്ട് അതിനാൽ ഞങ്ങൾ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തിൽ എത്തി